ഹൌ ഇൻവെൻഷൻസ് ലുക്ക് കണ്ടെത്തലുകൾ എപ്രകാരം കാണപ്പെടുന്നു ഹൌ ഇൻവെൻഷൻസ് ലുക്ക് കണ്ടെത്തലുകൾ എപ്രകാരം കാണപ്പെടുന്നു ഇത് നിസ്സാരമായ ഒരു ചോദ്യമായി തോന്നിയേക്കാം ഇത് നിസ്സാരമായ ഒരു ചോദ്യമായി തോന്നിയേക്കാം കണ്ടത്തെലുകൾ എങ്ങെനെയാണ് കാണപ്പെടേണ്ടത് കണ്ടത്തെലുകൾ എങ്ങെനെയാണ് കാണപ്പെടേണ്ടത് ഈ ചോദ്യം ഒരു പേറ്റന്റിംഗ് വീക്ഷണകോണിൽ നിന്നാണ് ഈ ചോദ്യം ഒരു പേറ്റന്റിംഗ് വീക്ഷണകോണിൽ നിന്നാണ് നിങ്ങൾ ഒരു കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുക്കുമ്പോൾ പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിന്റെ ലക്ഷ്യം കണ്ടുപിടുത്തത്തെ വിവരിക്കുകയല്ല നിങ്ങൾ ഒരു കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുക്കുമ്പോൾ പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിന്റെ ലക്ഷ്യം കണ്ടുപിടുത്തത്തെ വിവരിക്കുകയല്ല കണ്ടുപിടുത്തതിന് സ്ഥലകാല മാനങ്ങളുണ്ട് കണ്ടുപിടുത്തതിന് സ്ഥലകാല മാനങ്ങളുണ്ട് ഒരു കണ്ടെത്തലിന് ഭൌതികരൂപസാക്ഷാത്കാരം ഉണ്ടാകാം ഒരു കണ്ടെത്തലിന് ഭൌതികരൂപസാക്ഷാത്കാരം ഉണ്ടാകാം പേറ്റന്റ് വിവരണത്തിൽ നിങ്ങൾ പേറ്റന്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ആ കണ്ടെത്തലിനെ വെറുതെ വാക്കുകളിൽ വിവരിക്കുകയല്ല പേറ്റന്റ് വിവരണത്തിൽ നിങ്ങൾ പേറ്റന്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ആ കണ്ടെത്തലിനെ വെറുതെ വാക്കുകളിൽ വിവരിക്കുകയല്ല നിങ്ങൾ അതിന്റെ ഭൌതികരൂപസാക്ഷാത്കാരങ്ങളെ വിവരിക്കുകയില്ല നിങ്ങൾ അതിന്റെ ഭൌതികരൂപസാക്ഷാത്കാരങ്ങളെ വിവരിക്കുകയില്ല മറിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ കണ്ടത്തെലിനെ വാചകം ചെയ്യുക എന്നതാണ് മറിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ കണ്ടത്തെലിനെ വാചകം ചെയ്യുക എന്നതാണ് ഒരു ഭൌതികരൂപസാക്ഷാത്ക്കാരം ഉണ്ട് ഒരു ഭൌതികരൂപസാക്ഷാത്ക്കാരം ഉണ്ട് അതിന്റെ ഭൌതിക ഭാവം എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാനും മനസിലാക്കാനും കഴിയുന്ന കാര്യം എന്നർത്ഥം അതിന്റെ ഭൌതിക ഭാവം എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാനും മനസിലാക്കാനും കഴിയുന്ന കാര്യം എന്നർത്ഥം കണ്ടെത്തൽ നടത്തിയ വ്യക്തി താൻ കണ്ടുപിടിച്ച പുതിയ ഉപകരണവുമായി നിങ്ങളുടെ മുറിയിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക കണ്ടെത്തൽ നടത്തിയ വ്യക്തി താൻ കണ്ടുപിടിച്ച പുതിയ ഉപകരണവുമായി നിങ്ങളുടെ മുറിയിലേക്ക് വരുന്നു എന്ന് വിചാരിക്കുക ആ കണ്ടെത്തൽ ഒരു സാധാരണക്കാരന് എപ്രകാരം കാണപ്പെടുന്നു എന്നതാണ് അതിന്റെ ഭൌതികരൂപസാക്ഷാത്ക്കാരം ആ കണ്ടെത്തൽ ഒരു സാധാരണക്കാരന് എപ്രകാരം കാണപ്പെടുന്നു എന്നതാണ് അതിന്റെ ഭൌതികരൂപസാക്ഷാത്ക്കാരം എന്നാൽ പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭൌതികരൂപസാക്ഷാത്കാരം അല്ല അതിലധികമായി നമ്മൾ അതിന്റെ ഭൌതികരൂപസാക്ഷാത്കാരം വാചക രൂപത്തിലാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ പേറ്റന്റ് ഡ്രാഫ്റ്റിംഗിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭൌതികരൂപസാക്ഷാത്കാരം അല്ല അതിലധികമായി നമ്മൾ അതിന്റെ ഭൌതികരൂപസാക്ഷാത്കാരം വാചക രൂപത്തിലാക്കാനാണ് ശ്രമിക്കുന്നത് ഇതിനെയാണ് നമ്മൾ കണ്ടെത്തലിനെ വാചകം ചെയ്യുക എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിനെയാണ് നമ്മൾ കണ്ടെത്തലിനെ വാചകം ചെയ്യുക എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പേറ്റന്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടത്തെലിനെ വാചകം ചെയ്യുന്നു നിങ്ങൾ പേറ്റന്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടത്തെലിനെ വാചകം ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിരിക്കുന്നത് ഇത് പ്രധാനമാണ് കാരണം ഡ്രാഫ്റ്റിംഗിൽ നിങ്ങൾ കണ്ടുപിടുത്തത്തെ ഒരു വാചക രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു ഇത് പ്രധാനമാണ് കാരണം ഡ്രാഫ്റ്റിംഗിൽ നിങ്ങൾ കണ്ടുപിടുത്തത്തെ ഒരു വാചക രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഭൌതികരൂപസാക്ഷാത്കാരം വാക്കുകളിലേക്കും ചിത്രങ്ങളിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുന്നു അതിനാൽ ഭൌതികരൂപസാക്ഷാത്കാരം വാക്കുകളിലേക്കും ചിത്രങ്ങളിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുന്നു ഇനി ഇത് എങ്ങനെ കാണപ്പെടുന്നു എന്നതിന്റെ ഒരു അവലോകനം നിങ്ങൾക്ക് ഇപ്പോൾ നൽകാം ഇനി ഇത് എങ്ങനെ കാണപ്പെടുന്നു എന്നതിന്റെ ഒരു അവലോകനം നിങ്ങൾക്ക് ഇപ്പോൾ നൽകാം വൈദ്യുത ബൾബിന്റെ പേറ്റന്റ് നമ്മൾ കണ്ടു വൈദ്യുത ബൾബിന്റെ പേറ്റന്റ് നമ്മൾ കണ്ടു പേറ്റന്റിൽ ആ ചിത്രത്തിന്റെ ഒരു വിവരണവുമുണ്ട് പേറ്റന്റിൽ ആ ചിത്രത്തിന്റെ ഒരു വിവരണവുമുണ്ട് എന്നാൽ ഒരു ക്ലെയിമിൽ ഇലക്ട്രിക് ബൾബിനെ വിവരിക്കുന്നത് അത് പ്രകാശം നൽകുന്നതിനുള്ള ഒരു വൈദ്യുത വിളക്കാണ് എന്നും വിവരിച്ചിരിക്കുന്നതുപോലെ അത് ഉയർന്ന പ്രതിരോധമുള്ള കാർബണിന്റെ ഒരു ഫിലമെന്റ് അടങ്ങിയതാണ് എന്നും ലോഹ വയറുകളാൽ സുരക്ഷിതമാണ് എന്നുമാണ് എന്നാൽ ഒരു ക്ലെയിമിൽ ഇലക്ട്രിക് ബൾബിനെ വിവരിക്കുന്നത് അത് പ്രകാശം നൽകുന്നതിനുള്ള ഒരു വൈദ്യുത വിളക്കാണ് എന്നും വിവരിച്ചിരിക്കുന്നതുപോലെ അത് ഉയർന്ന പ്രതിരോധമുള്ള കാർബണിന്റെ ഒരു ഫിലമെന്റ് അടങ്ങിയതാണ് എന്നും ലോഹ വയറുകളാൽ സുരക്ഷിതമാണ് എന്നുമാണ് അതായത് ഒരു കണ്ടത്തെലിന്റെ ഭൌതികരൂപ സാക്ഷാത്കാരം വാസ്തവത്തിൽ ഒരു വൈദ്യുത ബൾബ് എപ്രകാരം കാണപ്പെടുന്നുവോ അത് പോലെയാണ് അതായത് ഒരു കണ്ടത്തെലിന്റെ ഭൌതികരൂപ സാക്ഷാത്കാരം വാസ്തവത്തിൽ ഒരു വൈദ്യുത ബൾബ് എപ്രകാരം കാണപ്പെടുന്നുവോ അത് പോലെയാണ് എന്നാൽ പേറ്റന്റ് ഭാഷയിൽ നിങ്ങൾ ഒരു പേറ്റന്റ് ഡ്രാഫ്റ്റുചെയ്യുമ്പോൾ വെറുതെ അതിന്റെ രൂപഭാവത്തെ വിവരിക്കാൻ പോകുന്നില്ല എന്നാൽ പേറ്റന്റ് ഭാഷയിൽ നിങ്ങൾ ഒരു പേറ്റന്റ് ഡ്രാഫ്റ്റുചെയ്യുമ്പോൾ വെറുതെ അതിന്റെ രൂപഭാവത്തെ വിവരിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആ കണ്ടത്തെലിനെ വാചകവത്കരിച്ച് നിശ്ചയദാർഢ്യത്തോടെ അതിനെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ ആ കണ്ടത്തെലിനെ വാചകവത്കരിച്ച് നിശ്ചയദാർഢ്യത്തോടെ അതിനെ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പ്രിന്റിംഗ് പ്രസ് പ്രിന്റിംഗ് പ്രസ് നമ്മൾ ഈ കണ്ടത്തലിനെ കുറിച്ച് നേരത്തെ കണ്ടിരുന്നു നമ്മൾ ഈ കണ്ടത്തലിനെ കുറിച്ച് നേരത്തെ കണ്ടിരുന്നു ഒരു സാധാരണക്കാരന് ചില ധർമ്മങ്ങൾ നിർവ്വഹിക്കുന്ന ഒരു യന്ത്രം പോലെ കാണപ്പെടാം ഒരു സാധാരണക്കാരന് ചില ധർമ്മങ്ങൾ നിർവ്വഹിക്കുന്ന ഒരു യന്ത്രം പോലെ കാണപ്പെടാം എന്നാൽ ഒരു പ്രിന്റിംഗ് പ്രസ്സിനായി നിങ്ങൾ ഒരു പേറ്റന്റ് ഡ്രാഫ്റ്റുചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ് എന്നാൽ ഒരു പ്രിന്റിംഗ് പ്രസ്സിനായി നിങ്ങൾ ഒരു പേറ്റന്റ് ഡ്രാഫ്റ്റുചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ് അതിന്റെ ക്ലെയിം വിവരിച്ചിരിക്കുന്നത് ഇവിടെ വായിക്കാവുന്നതാണ് അതിന്റെ ക്ലെയിം വിവരിച്ചിരിക്കുന്നത് ഇവിടെ വായിക്കാവുന്നതാണ് ക്ലെയിമിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ പകർത്തിയിട്ടുണ്ട് ക്ലെയിമിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ പകർത്തിയിട്ടുണ്ട് അതായത് ഒരു പേറ്റന്റ് വിവരിക്കുമ്പോൾ വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയുമായിരിക്കും അത് വിവരിക്കപ്പെടുക അതായത് ഒരു പേറ്റന്റ് വിവരിക്കുമ്പോൾ വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയുമായിരിക്കും അത് വിവരിക്കപ്പെടുക വീണ്ടും ടെലിഫോണിലേക്ക് വരാം വീണ്ടും ടെലിഫോണിലേക്ക് വരാം ടെലിഫോണിന്റെ ക്ലെയിം നിങ്ങൾക്കിവിടെ കാണാം ടെലിഫോണിന്റെ ക്ലെയിം നിങ്ങൾക്കിവിടെ കാണാം ടെലിഗ്രാഫിയുടെ ഒരു സംവിധാനം അതിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ ഗണ്യമായി വൈദ്യുതിയുടെ പ്രവാഹങ്ങൾ ഉപയോഗിച്ച് റിസീവറിനെ പ്രകമ്പനം ചെയ്യിക്കുന്നു ടെലിഗ്രാഫിയുടെ ഒരു സംവിധാനം അതിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ ഗണ്യമായി വൈദ്യുതിയുടെ പ്രവാഹങ്ങൾ ഉപയോഗിച്ച് റിസീവറിനെ പ്രകമ്പനം ചെയ്യിക്കുന്നു അതിനാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെലിഫോൺ കാഴ്ച്ചയിൽ എപ്രകാരമാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിവരിക്കപ്പെടുന്നത് അതിനാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെലിഫോൺ കാഴ്ച്ചയിൽ എപ്രകാരമാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിവരിക്കപ്പെടുന്നത് എന്നാൽ പേറ്റന്റിംഗിനായി അതിലൂടെ എന്താണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും അറിയിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ അതിനെ വാചകം ചെയ്യുകയാണ് എന്നാൽ പേറ്റന്റിംഗിനായി അതിലൂടെ എന്താണ് കണ്ടെത്തിയിരിക്കുന്നതെന്നും പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും അറിയിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങൾ അതിനെ വാചകം ചെയ്യുകയാണ്